നമസ്കാരം എല്ലാവർക്കും ഇന്നാരംഭിക്കുന്ന സെൽ കൾച്ചർ ടെക്നോളജി എന്ന പുതിയ കോഴ്സിലേക്ക് സ്വാഗതം സെൽ കൾച്ചർ ടെക്നോളജി എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ സാധാരണക്കാരുടെ മനസ്സിലേക്ക് എത്തുന്നത് ഒരു ലാബ് ട്രെയിനിങ് ആണ് ബയോളജി കെമിസ്ട്രി എൻവിയോൺമെൻറ് സയൻസ് തുടങ്ങിയ ശാസ്ത്ര അനുബന്ധ മേഖലകളിലെ ലാബുകളിൽ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക് ഇത് വളരെ ലളിതമായ ഒരു ടെക്നിക് ആണ് ഒരു സാധാരണക്കാരൻ അഥവാ ഒരു ഡിഗ്രി വിദ്യാർത്ഥിയോട് ചോദിച്ചാൽ ആദ്യം കിട്ടുന്ന ഉത്തരം എന്തെന്നാൽ കൃത്രിമ പരിസ്ഥിതിയിൽ വളർത്തുന്ന കോശങ്ങൾ എന്നാണ് അതുകൊണ്ടാണ് ഞങ്ങൾ ഈ മേഖലയിൽ കോഴ്സ് നൽകാൻ ആഗ്രഹിക്കുന്നത് ഈ മേഖലയിൽ ആളുകൾക്ക് കുറച്ച് പ്രായോഗിക അറിവ് നൽകാനാണ് ഇതുവഴി ഉദ്ദേശിക്കുന്നത് സെൽ കൾച്ചർ എന്ന പേരിന് പിന്നിൽ ഒരു ഫിലോസഫി ഉണ്ട് കുറച്ച് നിയമാവലികളുമുണ്ട് അതിലേറെ കുറച്ച് ശാസ്ത്രവും കലയും കൂടി ചേർന്നിട്ടുണ്ട് ഇതെല്ലാം അറിഞ്ഞാലേ ഒരാൾക്ക് സെൽ കൾച്ചർ പഠിക്കാൻ സാധിക്കു ഇതിനു പിന്നിലെ ഫിലോസഫിയും നാഴികക്കല്ലുകളും മനസ്സിലാക്കിയാൽ മാത്രമേ വ്യക്തികൾക്ക് ഇതിലെ ഓരോ പ്രശ്നങ്ങളും മനസ്സിലാക്കാനും പരിഹരിക്കാനും മുന്നോട്ടുപോകാനും സാധിക്കുകയുള്ളൂ ഉദാഹരണത്തിന് ഇന്ന് കണക്കിൽ ഒരുപാട് ടെക്നിക്കുകൾ ഉണ്ട് അതുപോലെ തന്നെ ഫിസിക്സിലും കെമിസ്ട്രിയിലും ഉണ്ട് ഉദാഹരണത്തിന് സ്പെക്ട്രോസ്കോപ്പിക് ടെക്നിക് നമുക്കെല്ലാം അതിൻറെ അടിസ്ഥാന തത്വം അറിയാം അത് രാമൻ സ്പെക്ട്രോസ്കോപ്പി ആയാലും FTIR ആയാലുംNMR ആയാലും അതിൻറെ അടിസ്ഥാന തത്വം അറിഞ്ഞാൽ നിങ്ങൾക്ക് ആ വിഷയം അല്ലെങ്കിൽ പ്രശ്നം കൈകാര്യം ചെയ്യാൻ സാധിക്കും ഈ സ്പെക്ട്രോസ്കോപ്പിയിൽ നിന്നും വേണ്ടതെല്ലാം ആർജിക്കാനും സാധിക്കും ക്രിസ്റ്റലോഗ്രാഫിയും മറ്റും അതുപോലെതന്നെ കണക്കിലെ പല ഉപകരണങ്ങളും സ്റ്റാറ്റിസ്റ്റിക്സ് പോലുള്ളവ അവയുടെ ഉത്ഭവത്തെയും ശക്തിയേയും പറ്റി അറിഞ്ഞാൽ പ്രശ്നങ്ങളെ കൂടുതൽ അർത്ഥവത്തായി പരിഹരിക്കാൻ സാധിക്കും സെൽ കൾച്ചർ അതിൻറെ ജൈത്രയാത്ര തുടങ്ങിയിട്ട് ഒരു നൂറ് വർഷമെങ്കിലും ആയി അതിനെ പറ്റി നിറയെ പുസ്തകങ്ങളും രചിക്കപ്പെട്ടിട്ടുണ്ട് ചിലത് ഞാൻ ഇപ്പോൾ തന്നെ പരാമർശിച്ചിട്ടുണ്ട് ടിഷ്യു കൾച്ചർ പുസ്തകം അല്ലെങ്കിൽ ഗോർസ്ലൈൻ ബാങ്കർസെ ന്യൂറൽ സെൽ കൾച്ചർ പിന്നെ ഗിബ്കോ ഇൻവിട്രോജനർ പോലത്തെ കമ്പനികൾ പുറത്തിറക്കിയ മാനുവൽ നിലവിൽ ഇവയെല്ലാം അറിയപ്പെടുന്നത് ലൈഫ് സയൻസ് ടെക്നോളജി പുസ്തകങ്ങൾ എന്നാണ് ഇവയെല്ലാം എല്ലാം നല്ല ഗൈഡുകൾ ആണ് പക്ഷേ എവിടെയൊക്കെയോ ഈ പുസ്തകങ്ങൾ കേവലം പ്രോട്ടോകോൾ പുസ്തകങ്ങൾ ആകുന്നു സെൽ കൾച്ചർ കേവലം പ്രോട്ടോകോൾ അല്ല അതിൻറെ നല്ലൊരു ഭാഗം പ്രോട്ടോകോൾ പ്രകാരമാണ് ആയി മാത്രം കാണുകയും പിന്തുടരുകയും ചെയ്യുന്നു ഇതിലെ ലോജികുക്കളെയും ഇത് ചെയ്യുന്നതിലെ കാരണങ്ങളെയും മാറ്റിനിർത്തിയാൽ ഈ കോഴ്സിൽ ഇതിൻറെ ടെക്നിക്കുകൾ അതിൻറെ ഫിലോസഫി ഇതിലേക്ക് നയിച്ച കാര്യങ്ങൾ ഏതൊക്കെ മേഖലയാണ് ആണ് ഉപയോഗപ്പെടുത്തിയത് ഏതൊക്കെയാണ് ഉപയോഗിക്കാത്തത് എന്നിവ നോക്കാം ഞാൻ മുൻപ് പറഞ്ഞപോലെ ഇതിൻറെ ചരിത്രം നൂറു വർഷം പഴക്കമുള്ളതാണ് നിങ്ങൾ നല്ലൊരു ഒരു ചരിത്രകാരനോ ശാസ്ത്ര ചരിത്രത്തിൽ താല്പര്യമുള്ളവരും ആണെങ്കിൽ കാണാൻ സാധിക്കും ഈ വിഭാഗത്തിലെ ആദ്യത്തെ പേപ്പർ പ്രസിദ്ധീകരിക്കുന്നത് 19081912 കാലഘട്ടത്തിലാണ് ഒന്നാം ലോക മഹായുദ്ധത്തിനു മുൻപ് ഒന്നാം ലോകമഹായുദ്ധം 1914 കാലഘട്ടത്തിലായിരുന്നു ഇതായിരുന്നു ഈ മേഖലയിലെ മുൻഗാമി ഹാരിസൺ ചെയ്ത വർക്ക് അദ്ദേഹം ഒരു എക്സ്പ്ലാൻറ് വളർത്തി എക്സ്പ്ലാൻറ് എന്നാൽ ഏതെങ്കിലും മൃഗത്തിൻറെ ശരീരഭാഗം അല്ലെങ്കിൽ മാട്രിക്സ് ആണ് ഇവിടെ മാട്രിക്സ് വളർത്തിയത് ചിലന്തിവലയിൽ ആയിരുന്നു അദ്ദേഹത്തിന് അത് എവിടെ വളർത്തണം എന്ന് അറിയില്ലായിരുന്നു ഈ പ്രശ്നത്തെ കുറിച്ച് നോക്കുന്നതിനു മുമ്പ് നമുക്ക് കുറച്ച് പുറകിലോട്ട് തിരിഞ്ഞു നോക്കാം ഈ മേഖലയിലെ ആദ്യത്തെ പ്രസിദ്ധീകരണം വരുന്നത് 117 വർഷം മുൻപാണ് ഈ 100 വർഷത്തെയും ചരിത്രം പരിശോധിച്ച് എന്താണ് ഉണ്ടായത് അത് എങ്ങനെയാണ് പുരോഗമിച്ചത് എന്ന് നോക്കാം അപ്പോൾ ഒത്തിരി കാര്യങ്ങൾ ഉണ്ട് വെറും ഒന്നോ രണ്ടോ ക്ലാസുകൾ കൊണ്ടത് തീരില്ല ഘട്ടംഘട്ടമായി ആയി നമുക്കത് മനസ്സിലാക്കി എടുക്കാം ഇടയ്ക്ക് പുറകിലേക്ക് പോയി ഇതെവിടെയാണ് തുടങ്ങിയത് എന്താണ് ഇത് നൽകുന്നത് ഇത് എങ്ങോട്ടാണ് പോകുന്നത് എന്ന് നോക്കാം നിങ്ങൾക്ക് ഇതിൻറെ ചരിത്രം അറിഞ്ഞില്ലെങ്കിൽ സമയം അറിഞ്ഞില്ലെങ്കിൽ ഇത് എങ്ങനെയാണ് പുരോഗമിക്കുന്നത് എന്ന് അറിഞ്ഞില്ലെങ്കിൽ ഇനി ഉണ്ടാകുന്ന ഈ മേഖലയിലെ നാഴികകല്ലുകൾ മനസ്സിലാക്കുക പ്രയാസമായിരിക്കും അതിനാൽ തന്നെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞപോലെ ചിലർക്ക് ഇത് വെറും ടെക്നിക് ആണ് എന്നാൽ ചിലർ തങ്ങളുടെ ജീവിതകാലം മുഴുവൻ ഈ മേഖലയിലെ കണ്ടുപിടുത്തങ്ങൾക്കായി നീക്കി വെച്ചിട്ടുണ്ട് അത് മനസ്സിൽ വച്ചുകൊണ്ട് നമുക്ക് പതിനെട്ടാം നൂറ്റാണ്ടിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാം ആ കാലഘട്ടത്തിലാണ് സെല്ലുലാർ തിയറി ഉണ്ടായത് അത് പറയുന്നത് കോശങ്ങൾ ഉണ്ടാക്കുന്നത് മുൻപ് നിലനിന്നിരുന്ന കോശങ്ങളിൽ നിന്നാണ് എന്നതാണ് നമ്മുടെ കോഴ്സ് സെൽ കൾച്ചർ ടെക്നോളജി ആണ് ഇനി വരാൻ പോകുന്ന 40 ക്ലാസുകളിൽ നമ്മൾ മൃഗങ്ങളുടെ കോശങ്ങളെ പറ്റിയാണ് പഠിക്കുന്നത് ചെടികളുടെ കോശങ്ങളെ നമ്മൾ ഇപ്പോൾ പരിഗണിക്കുന്നില്ല കാരണം അവ വ്യത്യസ്തമാണ് സെൽ കൾച്ചർ ടെക്നോളജിയിൽ എല്ലാ തരത്തിലുള്ള മൃഗങ്ങളുടെ കോശങ്ങളും മൈലിൻ കോശങ്ങൾ മനുഷ്യ കോശങ്ങൾ സസ്തിനികൾ ഉഭയജീവികൾ തുടങ്ങിയവയുടെ കോശങ്ങളെ പറ്റിയും പഠിക്കുന്നു ഇതൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്ന വസ്തുതകൾ അടിസ്ഥാന തത്വത്തിലേക്ക് വന്നാൽ ഓരോ കോശവും മുൻപ് ഉണ്ടായിരുന്ന ഒരു കോശത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത് എങ്കിൽ എന്തുകൊണ്ട് നമുക്ക് ഇത് പുറത്ത് വെച്ചു അതായത് ശരീരത്തിന് പുറത്ത് വെച്ച് ചെയ്തുകൂടാ ഉദാഹരണത്തിന് നമ്മുടെ ശരീരത്തിന് പുറത്ത് കാണുന്ന എപിഡെർമൽ കോശങ്ങളിൽ നിന്ന് ഒരു ചെറിയ ഭാഗം ഇതിനായി എന്തുകൊണ്ട് എടുത്തുകൂടാ ഏവർക്കും ഇതിൻറെ അടിസ്ഥാന ഘടനയെ പറ്റി അറിയുന്നു ണ്ടാകും ഒരേ പ്രവൃത്തി ചെയ്യുന്ന ഒരു കൂട്ടം സെല്ലുകളെ നമ്മൾ ടിഷ്യു എന്നു വിളിക്കുന്നു ഓരോ സെല്ലും അടുത്ത സെല്ലുമായി ഒരു മാട്രിക്സ് വഴി ബന്ധിപ്പിക്കപെട്ടിരിക്കുന്നു ഈ മാട്രിക്സ് അലിയിച്ചു കളഞ്ഞാൽ സെല്ലുകൾ സ്വതന്ത്രരാകും ഈ സ്വതന്ത്ര സെല്ലുകളെ ശരീരത്തിന് പുറത്തേക്ക് എടുത്ത് പ്ലേറ്റ് ചെയ്താൽ അത് അതേ രീതിയിൽ പെരുമാറുമോ ഇതിനെ നമുക്ക് ഗ്രാഫികലായി കാണിക്കാം അപ്പോൾ നമ്മൾ തുടങ്ങുകയാണ് ഇവിടെ നമ്മൾ മൃഗങ്ങളുടെ കോശങ്ങളെ പറ്റി മാത്രമാണ് ആണ് പഠിക്കുന്നത് ഉദാഹരണത്തിന് ഒരു മൃഗത്തിൽ നിന്ന് ഇന്ന് ഞാൻ ഒരു ടിഷ്യു വേർതിരിച്ചെടുത്തു അത് ഏതാണ്ട് ഇതുപോലെ പോലെ ഇരിക്കും ഇപ്പോൾ ഞാൻ വേർതിരിച്ചു വെച്ചിരിക്കുന്നത് സെല്ലുകളുടെ ഒരു കൂട്ടത്തെയാണ് എനിക്ക് രണ്ടു വഴികൾ ഉണ്ട് ഒന്ന് അവയെ അവിടെത്തന്നെ അതായത് ശരീരത്തിന് പുറത്തുള്ള അവസ്ഥയിൽ വളർത്തുക ഇതുവരെ അത് ശരീരത്തിന് അകത്തായിരുന്നു അതിനെ നമ്മൾ ഇൻ വൈവോ എന്ന് വിളിക്കും സെല്ലുകളെ മൃഗശരീരത്തിന് അകത്തു വെച്ച് പഠിക്കുന്നതിന് ഇൻ വൈവോ എന്ന് പറയുന്നു ഇവിടെ ഇൻവിട്രോ അതായത് ശരീരത്തിന് പുറത്ത് വെച്ചാണ് സെല്ലുകളെ വളർത്തുന്നത് അതായത് ഇവിടെ ടിഷ്യുവിനെ ശരീരം ഘടനയ്ക്ക് പുറത്ത് വെച്ച് വളർത്തുന്നു ഈ അവസ്ഥയിൽ അതിനെ ടിഷ്യു കൾച്ചർ എന്ന് വിളിക്കാം അതൊരു വിഭജിക്കുന്ന സെല്ലുകൾ ആയിരുന്നെങ്കിൽ ഓമ്നി സെല്ലുലാ തിയറി അനുസരിച്ച് ആ ടിഷ്യു കൾച്ചർ പ്ലേറ്റിലെ പഴയ സെല്ലുകൾ വിഭജിച്ച് പുതിയ സെല്ലുകൾ ഉണ്ടായേനെ ഞാൻ കാണിച്ച ആ ചുവപ്പ് സെല്ലുകൾ പോലത്തെ അതായത് അവർ വിഭജിച്ച് സെല്ലുകളുടെ ഒരു കൂട്ടം ആയി മാറുന്നു ഞാൻ മുകളിൽ കാണിച്ച ആ ചുവന്ന സെല്ലുകൾ സിസ്റ്റത്തിന് പുറത്ത് വളരുന്നതാണ് ഇവിടെ ഞാൻ ആകെ ചെയ്തത് ടിഷ്യുവിനെ വിഭജിച്ചു സിംഗിൾ സെൽ സസ്പെൻഷൻ ഉണ്ടാക്കി എന്നതാണ് അപ്പോൾ എന്താണ് ഈ സസ്പെൻഷൻ അതായത് ഇപ്പോൾ എൻറെ കയ്യിൽ ഉള്ളത് മൃഗ കോശത്തിൽ നിന്ന് എടുത്ത യഥാർത്ഥ ടിഷ്യു ആണ് ഈ ടിഷ്യുവിന് നിരവധി സെല്ലുകൾ ഉണ്ട് ഓരോ സെല്ലും മറ്റൊന്നിൽ ആണ് ചാരി ഇരിക്കുന്നത് അതായത് ഞാൻ ഈ കാണിക്കുന്ന ചുവന്ന രേഖകൾ പോലെ ഇവ സെലിൻറെ പുറത്തുള്ള മാട്രിക്സ് ആണ് ഇതാണ് സെല്ലുകളെ കൂട്ടമായി ഒരുമിച്ച് ഇരുത്തുന്നത് ഇപ്പോൾ ഞാൻ ചില എൻസൈമുകൾ എടുത്ത് ആ മാട്രിക്സ് അലിയിച്ചു കളയുകയാണ് ഇതിനു പറ്റിയ ചില പദാർത്ഥങ്ങൾ പരിചയപ്പെടുത്താം ഇപ്പോൾ മാട്രിക്സ് പോയതിനുശേഷം എന്താണ് അവശേഷിക്കുന്നത് എന്ന് നോക്കാം തൽക്കാലം ടെക്നിക്കൽ വാക്കുകളൊന്നും ഞാനിപ്പോൾ പരിചയപ്പെടുത്തുന്നില്ല ഇപ്പോൾ നമുക്ക് കിട്ടുന്നത് ഒറ്റയ്ക്കുള്ള സെല്ലുകളാണ് ഇതിനെയാണ് കഴിഞ്ഞ സ്ലൈഡിൽ സിംഗിൾ സെൽ സസ്പെൻഷൻ എന്ന് പറഞ്ഞത് ഈ സിംഗിൾ സെൽ സസ്പെന്ഷന് വളരാൻ ആവശ്യമായ സാഹചര്യം ലഭിച്ചാൽ അതായത് ഞാനിവിടെ അതിനെ ഒരു കൃത്രിമ പരിസ്ഥിതിയിൽ വളർത്തിയാൽ അവയ്ക്ക് വിഭജിക്കാൻ കഴിവുള്ള പോലെ പെരുമാറാൻ സാധിക്കണം അപ്പോൾ ഈ പച്ച കളർ കാണിക്കുന്നത് വിഭജിക്കുന്ന സെല്ലുകളെയാണ് അവ ഓമ്നി സെല്ലുലാ തിയറി തെളിയിക്കുന്നു അതായത് മുൻപേ ഉണ്ടായിരുന്ന സെല്ലുകളിൽ നിന്നാണ് പുതിയ സെല്ലുകൾ ഉണ്ടാകുന്നത് എന്ന് അതായത് ഈ രണ്ടു പദങ്ങളെ വാക്കുകളെ വിപരീത അർത്ഥത്തിൽ ഉപയോഗിക്കുകയായിരുന്നു പഴയകാല പ്രബന്ധങ്ങളിൽ ഹാരിസൺ 1903 ചെയ്തത് ടിഷ്യുകൾച്ചർ ആയിരുന്നു അദ്ദേഹം ഒരു എക്സ്പ്ലാൻറ് എടുത്തു എന്നിട്ട് അത് ചിലന്തിവലയിൽ വളർത്തി അതൊരു ന്യൂറൽ ടിഷ്യു ആണ് എന്ന് തോന്നുന്നു അത് ന്യൂറൽ സെൽ ആയി ചിലന്തി വലയിൽ ഉടനീളം വളർന്നു അപ്പോൾ ഇവിടെ ഉണ്ടാക്കപ്പെട്ട വാക്ക് ടിഷ്യുകൾച്ചർ ആണ് എന്നാൽ ഇവിടെ നമ്മൾ സെൽ കൾച്ചർനെ പറ്റിയാണ് പറയുന്നത് ഒരൊറ്റ സെല്ലിനെ ടിഷ്യുകളുടെ ഒരു കൂട്ടമായി ആയി മാറ്റാം അടുത്തഘട്ടത്തിൽ ടിഷ്യുവിനെ ത്രിമാന രൂപം കൈവരിച്ചാൽ അതിനെ ചെടിയായി കണക്കാക്കാം ചില സമയത്ത് ആളുകൾക്ക് നേരിട്ട് എക്സ്പ്ലാൻറ് കിട്ടും പക്ഷേ ഇവിടെ നമ്മൾ കൈകാര്യം ചെയ്യുന്നത് അത് മറ്റൊന്നാണ് ഇതൊക്കെയാണ് സെൽ കൾച്ചർ നമ്മൾ സെൽ കൾച്ചർ ടിഷ്യു കൾച്ചർ പ്ലാന്റ് കൾച്ചർ തുടങ്ങിയ എല്ലാത്തിനെയും പറ്റി മനസ്സിലാക്കും ഇത് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ട് ആണ് അടിസ്ഥാനപരമായി എല്ലാത്തിനെയും പറ്റി അറിവുണ്ടായിരിക്കണം ഇനി നിങ്ങൾക്ക് തെറ്റി പോകാൻ പാടില്ല ശരിയായ പദങ്ങൾ തന്നെ ഉപയോഗിക്കണം യഥാർത്ഥത്തിൽ അത് തെറ്റല്ല ചില ആശയക്കുഴപ്പങ്ങൾ കാരണം സംഭവിക്കുന്നതാണ് എന്താണ് ഞാൻ ചെയ്യുന്നത് അതിനെപ്പറ്റി യാതൊരു ആശയക്കുഴപ്പവും ഇനി ഉണ്ടാവരുത് റുഡോൾഫ് വെർച്യുവീൻറെ ഓമ്നി സെല്ലുലാ തിയറി പിന്നീട് സെൽ തിയറിയുടെ പ്രധാന ഭാഗമാവുകയായിരുന്നു അങ്ങനെയെങ്കിൽ ഇതിൽ ഈ കാണുന്ന പഴയ സെല്ലിൽ നിന്നും പുതിയ സെൽ ആയ ഈ പച്ച കളർ സെൽ ഉണ്ടാകുന്നു എൻറെ ചോദ്യം എന്തെന്നാൽ പുതുതായി ഉണ്ടായ സെൽ പഴയ സെല്ലുമായി എത്രത്തോളം സാമ്യമുണ്ട് ഇതാണ് പാരന്റ് സെൽ പിന്നെ ഇതാണ് അതിൽനിന്ന് ഉണ്ടാക്കപ്പെട്ട സെൽ ഇവ രണ്ടും തമ്മിൽ സാമ്യം തോന്നാം എന്നാൽ യഥാർത്ഥത്തിൽ ഇവ തമ്മിൽ ഘടനാപരമായ സാമ്യമുണ്ടോ ഈ രണ്ടു തരം സെല്ലുകളെയും താരതമ്യപ്പെടുത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അവയുടെ ഘടനയും പ്രവർത്തനവുമാണ് പുതുതായി ഉണ്ടായ സെല്ലുകളുടെയും അവയുടെ പാരന്റ് സെല്ലുകളുടെയും പ്രവർത്തനം ഒന്നാണോ എന്ന് പരിശോധിക്കണം അത്തരത്തിൽ ഒരു പോലെ ആകണം എങ്കിൽ അവയുടെ പ്രോട്ടീൻ ഘടനയും മറ്റ് അനുബന്ധ പാരാമീറ്ററുകളും ശരീരഘടയുടെ പുറത്തും ഒരു പോലെ ആകണം ശരീരത്തിനകത്ത് ആ സെല്ലുകൾ രക്തക്കുഴലുകൾ മറ്റുപല ടിഷ്യുകൾ എന്നിവയ്ക്ക് സമീപമാണ് ഇരിക്കുന്നത് എന്നാൽ ശരീരത്തിന് പുറത്തേക്ക് എടുക്കുമ്പോൾ ഒരു കൃത്രിമമായ പരിസ്ഥിതിയിൽ ആണ് അവ വളരുന്നത് അതിനാൽ തന്നെ അവയുടെ പ്രവർത്തനരീതിയും ശരീരത്തിനുള്ളിൽ ഉള്ളതിനേക്കാൾ വ്യത്യസ്തമാകുന്നു ഉദാഹരണത്തിന് ഇപ്പോൾ ഇവിടെ ഈ ശരീരത്തിൽ വളരുന്ന ഒരു സെൽ എടുത്താൽ അതിനെ ബാധിക്കുന്ന നിരവധി വ്യവസ്ഥകളും കാര്യങ്ങളുമുണ്ട് എന്നാൽ അതേ സെല്ലിനെ പുറത്തേക്ക് എടുത്താൽ അതൊരു ഒരു കാൻസർ സെല്ലായി വരെ മാറാം കാരണം അതിൻറെ വളർച്ചക്ക് അവിടെ പരിധികളില്ല അപ്പോൾ ശരീരഘടനയോട് എത്രത്തോളം ഓളം അടുത്തിരിക്കുന്നുവോ അത്രത്തോളം നമ്മുടെ ടെക്നിക്കും വിജയകരമായിരിക്കും ഇപ്പോൾ നമുക്കൊരു ഒരു വര വരയ്ക്കാം അടുത്ത ക്ലാസ്സിൽ ഈ വരയോട് ചേർന്ന് ഒരു വര കൂടി വരയ്ക്കാം അതായത് ഇൻ വൈവോ വ്യവസ്ഥകൾക്ക് സമ്മാനമായിരിക്കണം ഇൻവിട്രോ പരിസ്ഥിതി ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ്സ് അവസാനിപ്പിക്കാം നാളെ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഈ സാമ്യത്തെ പറ്റിയും എവിടെയെല്ലാമാണ് മാറ്റങ്ങൾ വരുന്നതെന്നും നോക്കാം